ഈ പ്രഭാഷണത്തിൽ ഒരു ഡിസൈനിലെ പവർ ഡിസ്പേഷൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില അൽഗോരിതം ടെക്നിക്കുകൾ ഞങ്ങൾ നോക്കും അതിനാൽ നിങ്ങൾ അൽഗോരിതമിക് ടെക്നിക് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞങ്ങൾ ഇതുവരെ സിന്തസിസ് നടത്തിയിട്ടില്ല എന്നാണ് ഫങ്ക്ഷണൽ വീക്ഷണകോണിൽ നിന്നോ ബിഹേവിയറൽ വീക്ഷണകോണിൽ നിന്നോ ഞങ്ങൾ ഡിസൈൻ നോക്കുന്നു ഞങ്ങൾ ഇതുവരെ ഡിസൈൻ നടപ്പിലാക്കിയിട്ടില്ല ആ തലത്തിൽ പോലും ഞങ്ങൾക്ക് നിരവധി അവബോധജന്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ പിന്നീട് ഞങ്ങൾ ഒരു ഫൈനൽ സർക്യൂട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് പവർ ഡിസ്പേഷന്റെ കാര്യത്തിൽ നല്ലതായിരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ രീതികളിൽ പലതും യഥാർത്ഥത്തിൽ ഡിസൈൻ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ രീതിയിൽ എന്റെ ഇൻപുട്ട് സ്പെസിഫിക്കേഷൻ മാറ്റുകയാണെങ്കിൽ പവർ കൺസംപ്ഷനിലും മറ്റ് ചില സ്വഭാവസവിശേഷതകളിലും എന്റെ ഫൈനൽ സർക്യൂട്ട് മികച്ചതായിരിക്കുമെന്ന് അനുഭവപരിചയമുള്ള ഡിസൈനർമാർക്ക് അറിയാം അതിനാൽ ഈ അൽഗോരിതം ലെവൽ ടെക്നിക്കുകളിൽ ചിലത് ഞങ്ങൾ ഇവിടെ നോക്കുന്നു ഈ ടെക്നിക്കുകൾ അൽഗോരിതം തലത്തിൽ ചില മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനാൽ ഞങ്ങൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല വീണ്ടും ഈ രീതികൾ വളരെ പൊതുവായതായിരിക്കണമെന്നില്ല അവ എല്ലാ ഡിസൈനുകൾക്കും ബാധകമായേക്കില്ല എന്നാൽ സാധാരണയായി കാണപ്പെടുന്ന പല ഡിസൈനുകൾക്കും നിങ്ങൾക്ക് അവ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒരു ബൈനറി കൌണ്ടറിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ അപ്പ്രോച്ച്സ് ഞങ്ങൾ ചിത്രീകരിക്കും കുറഞ്ഞ പവറിന് കാര്യക്ഷമമായ രീതിയിൽ സ്റ്റേറ്റ് എൻകോഡിംഗ് എങ്ങനെ നടത്താം പിന്നെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനുകൾക്കായി എങ്ങനെ സ്റ്റേറ്റ് എൻകോഡിംഗും FSM കളിൽ ക്ലോക്ക് ഗേറ്റിംഗും നടത്താം FSM കളിലെ ക്ലോക്ക് ഗേറ്റിംഗ് വളരെ രസകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ കാണുന്നു ഞങ്ങൾ സംസാരിച്ചതും നോക്കിയതുമായ ഏത് ക്ലോക്ക് ഗേറ്റിംഗ് രീതികൾക്കും എനിക്ക് ഫങ്ഷണൽ ബ്ലോക്കിന്റെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ശ്രമിച്ചു അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്ലോക്ക് ഓഫ് ചെയ്യും അതിനായി ഞാൻ ഒരു ഗേറ്റ് ഉപയോഗിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എന്റെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തിട്ടില്ല എന്റെ സർക്യൂട്ടുകൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്റെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനുകളുടെ സ്പെസിഫിക്കേഷൻ മാത്രമേയുള്ളൂ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം ആയിരിക്കാം സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം നോക്കിയാൽ എന്റെ ക്ലോക്ക് ഓഫ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഇവയാണെന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയും അതിനാൽ അനാവശ്യമായ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഒഴിവാക്കപ്പെടുന്നു ഇതാണ് ആശയം ബൈനറി കൌണ്ടറുകൾക്കായുള്ള സ്റ്റേറ്റ് എൻകോഡിംഗിൽ നമുക്ക് ആരംഭിക്കാം അതിനാൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ സർക്യൂട്ട് തലത്തിൽ പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ ഡിസൈൻ സ്പെസിഫിക്കേഷൻ വളരെ ഉയർന്ന തലത്തിലാണ് നോക്കുന്നത് അനുയോജ്യമായ ഒരു സ്റ്റേറ്റ് എൻകോഡിംഗ് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഉയർന്ന തലത്തിൽ പോലും സ്വിച്ചിംഗ് പ്രവർത്തനം കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും അപ്പോൾ നമ്മൾ നോക്കുന്ന അപ്പ്രോച്ച്സ് എന്താണ് ഞങ്ങൾ ഒരു കൌണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ മുമ്പ് ഞങ്ങളുടെ കോഴ്സിൽ പഠിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ ലഭ്യമായതെന്തും നിങ്ങൾ സാധാരണ കാണും ഒന്നാമതായി അവർ ബൈനറി കൌണ്ടറിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് ബൈനറി സീക്വൻസ് 1 2 3 4 ൽ കണക്കാക്കുന്നു അവിടെ കൌണ്ട് വാല്യൂസ് ബൈനറിയിൽ ജനറേറ്റുചെയ്യുന്നു അതിനാൽ അത്തരം നിരവധി ഡിസൈൻ രീതികൾ ചില കോഴ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിരിക്കാം അവ ടെസ്റ്റ് ബുക്കുകളിൽ ലഭ്യമാണ് ഇപ്പോൾ ഈ ഡിസൈൻ രീതികൾ ഗേറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഡിലെ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സർക്യൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു എന്നാൽ പലപ്പോഴും അവർ പവർ ഡെസിപ്പേഷന്റെ പ്രശ്നം നോക്കാറില്ല നിങ്ങൾ കൌണ്ടർ രൂപകൽപന ചെയ്തുകഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഡിസൈനിന് നിങ്ങൾക്ക് സിഗ്നൽ ട്രാന്സിഷകളുടെ എണ്ണം കുറയും ശരി ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ കൌണ്ടർ ഡിസൈൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ആശയ തലത്തിലോ സ്പെസിഫിക്കേഷൻ തലത്തിലോ നോക്കുകയാണ് അതിനാൽ ഞങ്ങൾ പറയുന്നത് നേരായ ബൈനറി കോഡ് ഉപയോഗിക്കുന്നതിനുപകരം സിഗ്നലുകൾക്ക് അനുയോജ്യമായ ഒരു കോഡിംഗ് ഞങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് സ്വിച്ചിംഗ് ആക്റ്റിവിറ്റി കുറയ്ക്കാൻ സഹായിക്കും പല ആപ്ലിക്കേഷനുകളിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന കൌണ്ടറുകൾ നിങ്ങൾ സാധാരണയായി കാണും അവ ഒരു പ്രത്യേക ശ്രേണിയിലുള്ള സംഖ്യകൾ 0 1 2 3 4 പോലെ കണക്കാക്കുന്നു ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്കായി നമുക്ക് ഗ്രേ കോഡ് എൻകോഡിംഗ് പോലെയുള്ള ഒരു എൻകോഡിംഗ് ഉപയോഗിക്കാം സിഗ്നൽ ട്രാൻസിഷനുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്ക് നൽകാനോ ഞങ്ങൾക്ക് ചില നല്ല പ്രോപ്പർട്ടികൾ നൽകാനോ കഴിയും ഇപ്പോൾ ഗ്രേ കോഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ടേബിളിൽ ഞങ്ങൾ ഒരു കൌണ്ടർ ബൈനറി കൌണ്ടറിലെ കൌണ്ട് വാല്യൂസ് ഒരു 3 ബിറ്റ് പ്രാതിനിധ്യം കാണിക്കുന്നു ഒരു 3 ബിറ്റ് കൌണ്ടറിലെ 0 മുതൽ 7 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ് കാണുക അതിനാൽ കൌണ്ടർ 0 1 2 4 മുതൽ 7 വരെ കണക്കാക്കും വീണ്ടും 0 ലേക്ക് മടങ്ങുക അതിനാൽ ഇത് ബൈനറി കൌണ്ടറാണെങ്കിൽ കൌണ്ട് വാല്യൂസ് ഈ ബൈനറി 0 1 2 3 4 പോലെ വരും ഇനി ഈ തുടർച്ചയായ കൌണ്ട് വാല്യുസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പരിധിവരെ പവർ ബോധമുണ്ട് എത്ര ട്രാന്സിഷൻസ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം 0 മുതൽ 1 വരെയുള്ള എണ്ണത്തിൽ നിന്ന് നമുക്ക് നോക്കാം ഒരു ട്രാന്സിഷനുണ്ട് 1 മുതൽ 2 വരെ അവസാന 2 ബിറ്റുകളിൽ 2 ട്രാന്സിഷനുകളുണ്ട് 2 മുതൽ 3 വരെ ഒരു ട്രാന്സിഷനുണ്ട് 3 മുതൽ 4 വരെ എല്ലാ 3 ബിറ്റുകളും മാറുന്നത് വളരെ മോശമാണ് 4 മുതൽ 5 വരെ 1 ട്രാന്സിഷൻ 5 മുതൽ 6 വരെ 2 ട്രാന്സിഷൻസ് 6 മുതൽ 7 വരെ 1 വീണ്ടും 7 മുതൽ 0 വരെ എല്ലാ 3ട്രാന്സിഷൻസ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞങ്ങൾക്ക് ഒരു ട്രാന്സിഷനുണ്ട് പരമാവധി നമുക്ക് എല്ലാ ബിറ്റുകളും മാറ്റാൻ കഴിയും അതിനാൽ ഇതര ഗ്രേ കോഡ് എൻകോഡിംഗിൽ തുടർച്ചയായ കൌണ്ടുകളിൽ ഒരു സമയം ഒരു ബിറ്റ് മാത്രം മാറുന്ന തരത്തിൽ ഞങ്ങൾ കൌണ്ട് വാല്യുസ് എൻകോഡ് ചെയ്യുന്നു അത് ഗ്രേ കോഡിന്റെ പ്രോപ്പർട്ടി ആണ് അതിനാൽഡെസിമൽ സംഖ്യകളുടെ ഗ്രേ കോഡ് 0 0 0 0 0 1 0 1 1 0 1 0 ഇതുപോലെയാണ് കൃത്യമായി ഒരു ബിറ്റ് ഒരു കൌണ്ടിൽ നിന്ന് അടുത്തതിലേക്ക് മാറുന്നു 1 0 0 തിരികെ 0 0 0 ലേക്ക് ഇതാണ് ഗ്രേ കോഡിന്റെ ഗുണം അതിനാൽ ഇപ്പോൾ അവബോധപൂർവ്വം ഗ്രേ കോഡിനായി ഒരു കൌണ്ടർ രൂപകൽപന ചെയ്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കാര്യക്ഷമമായ ഒരു സർക്യൂട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പവർ ഡിസ്സിപേഷന്റെ കാര്യത്തിൽ സ്വാഭാവികമായും സിഗ്നൽ ട്രാന്സിഷൻസിന്റെ എണ്ണം കുറവായിരിക്കും

ഒരു 2 ബിറ്റ് ബൈനറി കൌണ്ടറിനായുള്ള ഏതാനും നിരീക്ഷണങ്ങൾ മാത്രം കൌണ്ട് വാല്യൂസ് 0 0 0 1 1 0 1 1 മുതൽ തിരികെ 0 0 വരെ ആയിരിക്കും അതിനാൽ 4 ക്ലോക്ക് സൈക്കിളുകളിൽ 6 ട്രാന്സിഷൻസ് ഉണ്ട് 0 0 0 1 ഒരു ട്രാന്സിഷനുണ്ട് 1 മുതൽ 2 വരെ 2 ട്രാന്സിഷനുണ്ട് ഇതിലേക്ക് 1 1 1 മുതൽ 0 0 വരെ 2 ഉണ്ട് അതിനാൽ 1 2 1 2 ആകെ 6 അതിനാൽ 4 ക്ലോക്ക് സൈക്കിളുകളിൽ ഓരോ ക്ലോക്കിലും നിങ്ങൾക്ക് ശരാശരി 1 5 ട്രാന്സിഷനുണ്ട് എന്നാൽ നിങ്ങൾക്ക് 2 ബിറ്റ് ഗ്രേ കോഡ് കൌണ്ടർ ഉണ്ടെങ്കിൽ കൌണ്ട് വാല്യൂസ് ഇതുപോലെ പോകും 0 0 0 1 1 1 1 0 എന്നിവ 0 0 എന്നതിലേക്ക് മടങ്ങും അതിനാൽ ഓരോ ട്രാന്സിഷനും ഒരു ബിറ്റ് മാറിക്കൊണ്ടിരിക്കും അതിനാൽ 4 ക്ലോക്കിൽ 4 ട്രാന്സിഷൻസ് അതായത് ഓരോ ക്ലോക്കിനും ഒരു ട്രാന്സിഷൻ അതിനാൽ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്ലോക്കിലെ ട്രാന്സിഷനുകളുടെ എണ്ണത്തിൽ ഗ്രേ കോഡ് കൌണ്ടർ 50 ശതമാനം കൂടുതൽ കാര്യക്ഷമമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഗ്രേ കോഡ് കൌണ്ടർ പവറിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായിരിക്കും ഈ കൌണ്ടറിന്റെ ഡിസൈൻ ഞാൻ കാണിച്ചുതന്നു സാധാരണ ബൈനറി എൻകോഡിംഗുള്ള ലളിതമായ 2 ബിറ്റ് കൌണ്ടറാണിത് അതിനാൽ കൌണ്ട് വാല്യൂസ് 0 0 0 1 1 0 1 1 പോലെ പോകുന്നു അടുത്ത സ്റ്റേറ്റ് ഇതായിരിക്കും ഇവിടെ ഞാൻ മിനിമൈസേഷൻ ചെയ്തിട്ടില്ല നിങ്ങൾക്കും മിനിമൈസേഷൻ ചെയ്യാം കാരണം ഇവിടെ ഇവ ab അല്ലെങ്കിൽ a b എന്നത് ശരിയാണ് എന്നാൽ b ഇത് a b or a b ആണ് നിങ്ങൾ b കോമൺ എടുക്കുകയാണെങ്കിൽ അത് a അല്ലെങ്കിൽ a ആയിരിക്കും അല്ലെങ്കിൽ അത് b മാത്രമായിരിക്കും അതിനാൽ ഇത് മിനിമൈസ് ചെയ്യാം പക്ഷേ ഇൻപുട്ടുകളിൽ നിന്ന് ഔട്ട്പുട്ടുകളിലേക്കുള്ള ഡിലെ ബാലൻസ് ചെയ്യുന്നതിനാൽ ഇത് മിനിമൈസ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നു ചിലപ്പോൾ കുറഞ്ഞ പവർ ഡിസൈനിനായി ഞങ്ങൾ അത് ചെയ്യുന്നു എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ട്രാന്സിഷൻസിന്റെ എണ്ണം ഇതുപോലെ 4 ക്ലോക്ക് സൈക്കിളിൽ ഏകദേശം 6 ട്രാന്സിഷൻസ് ആയിരിക്കും ഇപ്പോൾ ഗ്രേ കോഡിനായി സ്റ്റേറ്റ് ടേബിൾ മാറും ഗ്രേ കോഡിന് 0 0 0 1 1 0 1 1 എന്നിവയാണ് മാറ്റങ്ങൾ അതിനാൽ എന്റെ പ്രവർത്തനങ്ങൾ ഇതുപോലെയായിരിക്കും a' b അല്ലെങ്കിൽ a b നിങ്ങൾ മിനിമൈസ് ചെയ്താൽ അത് b a' b അല്ലെങ്കിൽ a' b മാത്രമായിരിക്കും ഞങ്ങൾ മിനിമൈസ് ചെയ്താൽ ഇത് a മാത്രമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഇത് ഇതുപോലെ നിലനിർത്താനോ ഡിലെ ബാലൻസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ നിലനിർത്താം നിങ്ങൾക്ക് ഒരു ഗ്രേ കോഡ് കൌണ്ടർ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ ഇത് വളരെ കുറച്ച് ട്രാന്സിഷൻസിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കൌണ്ടുകളിലുടനീളം കൃത്യമായി ഇൻപുട്ടുകളിൽ ഒന്ന് മാറും അതിനാൽ മറ്റ് ഇൻപുട്ടുകൾ ട്രാന്സിഷനുകളൊന്നും ട്രിഗർ ചെയ്യില്ല ഇതാണ് നേട്ടം ഒരു 3 ബിറ്റ് കൌണ്ടറിനു വേണ്ടി ഞാൻ ഓരോ സ്റ്റേറ്റിലും ബൈനറിയെ താരതമ്യം ചെയ്യുന്നു 0 മുതൽ 1 1 1 മുതൽ 2 വരെയുള്ള എത്ര ട്രാന്സിഷൻസ് നടക്കുന്നു അതുപോലെ 7 മുതൽ 0വരെ 3 നിങ്ങൾ ശരാശരി എടുത്താൽ ഒരു ക്ലോക്കിലെ ശരാശരി ട്രാന്സിഷൻസ്1 75 ആയി വരും എന്നാൽ ഓരോ ട്രാന്സിഷനും ഗ്രേ കോഡ് കൌണ്ടറിന് ഒരു ടോഗിൾ ഉണ്ട് അതിനാൽ ഒരു ക്ലോക്കിലെ ശരാശരി ട്രാന്സിഷൻ ഒന്നു മാത്രമാണ് ഇത് രസകരമായ ഒരു നിരീക്ഷണമാണ് 75 ശതമാനം കൂടുതൽ ടോഗിൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ പൊതുവായി പറഞ്ഞാൽ നിങ്ങൾ ഒരു n ബിറ്റ് കൌണ്ടർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ബൈനറി കൌണ്ടറിനായി നിങ്ങൾ ഒരു ലളിതമായ കാൽകുലേഷൻ നടത്തുകയാണെങ്കിൽ ടോഗിളുകളുടെ എണ്ണം 2×2n−1 ആയി കണക്കാക്കാം നിങ്ങൾ ഇതിനകം കണ്ടതായി കാണുന്ന ഒരു ലളിതമായ കേസിന് 3 ബിറ്റ് കൌണ്ടറിന് ഇത് എത്രയാണ് 3 4 6 7 10 14 14 ഇത് 2×23−1 7×2 14 ആണ് അതിനാൽ ഇത് ലളിതമായ ഈ എക്സ്പ്രെഷൻ ടോഗിളിന്റെ എണ്ണം നൽകുന്നു എന്നാൽ ഗ്രേ കോഡ് കൌണ്ടറിനായി എല്ലാ ട്രാന്സിഷനിലും ഒന്നുമാത്രമേ ഉള്ളൂ കാരണം മൊത്തം2 പവർ n ട്രാന്സിഷൻ ഉണ്ട് മൊത്തം ടോഗിളുകളും2 പവർ n ആയിരിക്കും അതിനാൽ നിങ്ങൾ T ബൈനറി കൊണ്ട് ഹരിച്ച T ഗ്രേയുടെ അനുപാതം എടുക്കുകയാണെങ്കിൽ n വലുതാകുമ്പോൾ ഇത് ഏകദേശം 0 5 ആയി മാറുന്നു ഇത് 50 ശതമാനം ട്രാന്സിഷൻ കുറവാണ് ഈ പട്ടിക ഇത് കാണിക്കുന്നു ബിറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ അനുപാതം 0 5 ലേക്ക് അടുക്കുന്നു അതിനാൽ ഒരു 6 ബിറ്റ് കൌണ്ടറിന് ഇത് 0 5079 ആണ് ഇത് അനന്തതയിലേക്ക് നീങ്ങുന്നതിനാൽ ഇത് കൃത്യമായി 0 5 ആയിരിക്കും ഗ്രേ കോഡ് എൻകോഡിംഗ് ഉപയോഗിച്ച് പവർ കുറയ്ക്കുന്നതിന് ഒരു കൌണ്ടറിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ഡിസൈൻ ടെക്നിക്കുകളിൽ ഒന്നാണിത് ഇനി നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനുകളിലേക്ക് വരാം ഏതെങ്കിലും തരത്തിലുള്ള സർക്യൂട്ടിനായി ഞങ്ങൾ ഒരു കൺട്രോളർ രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾ കാണും ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ട്രാന്സിഷൻ ഡയഗ്രം വരയ്ക്കുക എന്നതാണ് ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാമിൽ നിന്ന് ഞങ്ങൾ എന്റെ സർക്യൂട്ട് സിന്തസൈസ് ചെയ്യാനോ രൂപകൽപ്പന ചെയ്യാനോ ശ്രമിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം എനിക്ക് ഇതുപോലെ ഒരു സ്റ്റേറ്റ് ട്രാന്സിഷൻ ഉണ്ടെന്ന് കരുതുക 3 സ്റ്റേറ്റ്കളും ഈ എഡ്ജസും ഉണ്ട് ഇത് ഇവിടെ ഒരു ആരോ ആണ് ഈ എഡ്ജസ് ചില സിഗ്നൽ പ്രോബബിലിറ്റികൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു 0 3 ഇത് ട്രാന്സിഷൻസിന്റെ പ്രോബബിലിറ്റിയെ സൂചിപ്പിക്കുന്നു ഞാൻ എന്റെ FSM രൂപകൽപന ചെയ്യുമ്പോൾ ചില യഥാർത്ഥ ജീവിത ഡാറ്റയെ അടിസ്ഥാനമാക്കി ഞാൻ ഇതിനകം കുറച്ച് സിമുലേഷൻ വിശകലനം നടത്തി ഓരോ ട്രാന്സിഷനും ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്താണ് അതിനാൽ എനിക്ക് ചില പ്രോബബിലിറ്റി വാല്യൂസ് ഉണ്ട് ഇവ എന്റെ പക്കൽ ലഭ്യമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഏറ്റവുമധികം എടുക്കുന്ന ട്രാന്സിഷൻസ് ഏതാണ് ഈ സംഖ്യകൾ ഇവിടെ 0 6 0 1 കാണിച്ചിരിക്കുന്നു ഈ സ്റ്റേറ്റിൽ നിന്ന് 60 ശതമാനവും ഇവിടെ ഈ സ്റ്റേറ്റിൽ വരാൻ 40 ശതമാനവും പ്രോബബിലിറ്റി ഉണ്ട് ഈ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ 60 ശതമാനവും ഇവിടെ 30 ശതമാനവും പിന്നെ 10 ശതമാനവും ഈആരോ കാണിക്കുന്നില്ല ഇവിടെ ഒരു ആരോ ഉണ്ട് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് സ്റ്റേറ്റ് എൻകോഡിംഗ് നടത്തുന്നു അതായത് ഓരോ സ്റ്റേറ്റും നിങ്ങൾ ഒരു ബൈനറി നമ്പർ ഉപയോഗിച്ച് എൻകോഡ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഞാൻ 0 0 1 1 0 1 നൽകുന്നു എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ഈ സിഗ്നൽ പ്രോബബിലിറ്റികളുടെ വെയ്റ്റഡ് തുകയും ട്രാന്സിഷൻസിന്റെ ബിറ്റ് ചേഞ്ച്ന്റെ ആകെത്തുകയും കണക്കാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന്1 10 0 ന് ഇടയിൽ 2 ബിറ്റ്സ് ചേഞ്ച് ആകെ പ്രോബബിലിറ്റി എന്താണ് ഒന്ന് 0 3 മറ്റൊന്ന് 0 4 ആണ് ഈ 2 എഡ്ജസ് 0 3 നും 0 4 നും ഇടയിലാണ് ഒന്ന് 1 1 നും 0 1 നും ഇടയിലാണ് 1 ബിറ്റ് ചേഞ്ച് 0 0 നും 0 1 നും ഇടയിൽ 1 ബിറ്റ് ചേഞ്ച് അതിനാൽ ഇവിടെ ആകെ പ്രോബബിലിറ്റി 0 1 ആണ് അതിനാൽ മൊത്തം വെയ്റ്റഡ് തുക 1 6 ആണ് ഞാൻ എന്റെ സിഗ്നൽ എൻകോഡിംഗ് മാറ്റുന്നുവെന്ന് കരുതുക ഞാൻ ഇത് 0 1 ആക്കുക ഇത് 0 0 ആക്കുക ഇത് 1 1 ആക്കുക അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് ഭൂരിഭാഗം ട്രാന്സിഷൻസും നടക്കുന്ന സ്റ്റേറ്റ്കൾ 0 0 0 1 എന്നീ ഒറ്റ ബിറ്റ് ട്രാന്സിഷൻ ഉള്ളതായി ഞാൻ എൻകോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ അത് 2 ആണ് അതിനാൽ ഇപ്പോൾ ഒന്ന് 0 3 പ്ലസ് 0 4 പ്ലസ് 0 1 ആണ് ഇവയാണ് ഇതും 2 ഉം ഇതിനും ഈ 0 1 നും ഇടയിലാണ് ഇപ്പോൾ ശരാശരി 1 0 ആയി കുറയുന്നതായി ഞാൻ കാണുന്നു എഫ്എസ്എം തലത്തിൽ പോലും ഞാൻ ഇതുവരെ സർക്യൂട്ട് രൂപകല്പന ചെയ്തിട്ടില്ല അതിനാൽ സിഗ്നൽ ട്രാൻസിഷനുകളുടെ വെയ്റ്റഡ് തുക കുറയ്ക്കുന്ന തരത്തിൽ എനിക്ക് എന്റെ സ്റ്റേറ്റ് എൻകോഡിംഗ് ഉപയോഗിക്കാം ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ടിന്റെ രൂപകല്പനയിലേക്ക് ഞാൻ എത്തുമ്പോൾ അത് ഒരു സർക്യൂട്ടിൽ കലാശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കുറച്ച് സിഗ്നൽ ട്രാന്സിഷൻസ് സൃഷ്ടിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ആർക്കിടെക്ടചറൽ അല്ലെങ്കിൽ അൽഗോരിതം ലെവൽ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ ടെക്നിക്കുകളാണ് വീണ്ടും നമുക്ക് FSM ലെവലിൽ ക്ലോക്ക് ഗേറ്റിംഗിലേക്ക് വരാം ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പരിഗണിക്കുക മൂർ മെഷീനും മീലി മെഷീനും എന്നീ 2 തരം മെഷീനുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരു മൂർ മെഷീനിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ് വേരിയബിളുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ മീലി മെഷീനിൽ വ്യത്യസ്തമായി ഔട്ട്പുട്ട് സ്റ്റേറ്റിനെ മാത്രമല്ല നിലവിലെ ഇൻപുട്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ നമുക്ക് ഇവിടെ മൂർ മെഷീനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം മൂർ മെഷീൻ അടുത്ത സ്റ്റേറ്റ് ഇപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ ആണോ എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഇൻപുട്ടിനെ ആശ്രയിക്കുന്നില്ല ഔട്ട്പുട്ട് സ്റ്റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഇൻപുട്ട് ട്രാൻസിഷൻ ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ നമുക്ക് പറയാം എനിക്ക് ഒരു ചെറിയ FSM ഉണ്ട് അവിടെ ഞാൻ 3 സ്റ്റേറ്റ്സ് കാണിക്കുന്നു Xi ൽ നിന്ന് Xk ലേക്ക് നമ്മൾ ഒരു ട്രാൻസിഷൻ നടത്തുന്നു ഇൻപുട്ട് Xi ഉം ഔട്ട്പുട്ട് Zk ഉം ആകുമ്പോൾ Xj ൽ നിന്ന് Xk ലേയ്ക്ക് ഞാൻ ഒരു ട്രാൻസിഷൻ നടത്തുന്നു ഇൻപുട്ട് Xj ഔട്ട്പുട്ട് എന്തെങ്കിലും ആയിരിക്കുമ്പോൾ ഇൻപുട്ട് Xk ഉം ഔട്ട്പുട്ട് Zk ഉം ആകുമ്പോൾ ഞാൻ Xk എന്ന സ്റ്റേറ്റിൽ തുടരും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇൻപുട്ടുകൾ Xi Xj ആയിരിക്കുമ്പോൾ സ്റ്റേറ്റിൽ എല്ലാം ചില സിഗ്നൽ ട്രാന്സിഷൻ സംഭവിക്കുന്നു എന്നാൽ ഇൻപുട്ട് Xk ആയിരിക്കുമ്പോൾ സ്റ്റേറ്റ് Xk ൽ തന്നെ തുടരും നിരീക്ഷണം എന്തെന്നാൽ ഞാൻ Xk എന്ന സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്റെ ഇൻപുട്ട് Xk ആയിരിക്കുമ്പോൾ ഇവിടെ ഒന്നും മാറാത്തതിനാൽ ഞാൻ എന്തുകൊണ്ട് എന്റെ ക്ലോക്ക് നിർത്തിക്കൂടാ ഞാൻ Xk ലാണ് എന്റെ ഇൻപുട്ട് Xk ആണ് ഞാൻ അവിടെ തുടരും അതിനാൽ ഈ പീരിയഡിൽ എനിക്ക് ക്ലോക്ക് നിർത്താൻ കഴിയും ഈ എഫ്എസ്എമ്മുകളിൽ എപ്പോഴെല്ലാം ഇതുപോലെ ഒരു സ്വയം ലൂപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലോക്ക് നിർത്താം അതിനാൽ FSM തലത്തിൽ ക്ലോക്ക് നിർത്താൻ ക്ലോക്ക് ഗേറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാം ഒരു സർക്യൂട്ട് ഡയഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇതുപോലെയാകാം അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെ ചെയ്യും അതിനാൽ ഇതാണ് എന്റെ ക്ലോക്ക് ആക്ടിവേഷൻ ലോജിക് clock activation logic എന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ സ്റ്റേറ്റ് ഉണ്ട് ഈ സ്റ്റേറ്റുകളിലേക് നിങ്ങൾക്ക് ഇൻപുട്ടുകൾ പ്രാഥമിക ഇൻപുട്ടുകൾ അവയുടെ കോമ്പിനേഷൻ അനുസരിച്ച് Xk Xk എന്നിവ നൽകാം ക്ലോക്ക് പ്രവർത്തനക്ഷമമാക്കണോ പ്രവർത്തനരഹിതമാക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ലാച്ചിൽ എന്തെങ്കിലും സൂക്ഷിക്കാൻ കഴിയും ആ ലാച്ച് തീരുമാനിക്കും അതിനാൽ ലാച്ച് 1 ആണെങ്കിൽ ഇവിടെ ഇൻവെർഷൻ ഉണ്ട് അത് 0 ആയിരിക്കും ക്ലോക്ക് 0 ആണെങ്കിൽ ക്ലോക്ക് പ്രവർത്തനരഹിതമാക്കും ഇത് നിങ്ങൾ എടുക്കുന്ന ഉയർന്ന തലത്തിലുള്ള തീരുമാനമാണ് അതിനാൽ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ വിശകലനം ചെയ്യുന്നതിലൂടെ ഞാൻ എന്റെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു സർക്യൂട്ട് ചേർക്കും ഈ സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും അപ്പോൾ ഞാൻ ക്ലോക്ക് നിർത്തും അതിനാൽ ഇത് ഒരു ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ ടെക്നിക്കാണ് ഇത് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ FSM ൽ സ്റ്റേറ്റ് മാറാത്ത സന്ദർഭങ്ങളിൽ ചില അനാവശ്യ ട്രാന്സിഷൻ ഞാൻ നിർത്തും ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഡിസൈനിന്റെ ഉയർന്ന തലത്തിലേക്ക് നോക്കുന്നു ഒരു ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ വിവരണ ഭാഷയുടെ ഒരു ഉദാഹരണവും ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ആശയം തരുന്നത് മാത്രമാണ് ഇവിടെ ഞാൻ ഒരു ലളിതമായ ഡീകോഡറിന്റെ വെരിലോഗ് വിവരണങ്ങൾ കാണിക്കുന്നു ഒരു 2 ടു 4 ഡീകോഡർ ഈ ഡീകോഡർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നു 2 ഇതര ഡിസൈനുകൾ കാണിച്ചിരിക്കുന്നു ഇതൊരു ഡീകോഡർ സർക്യൂട്ടാണ് 2 ഇൻപുട്ടുകളെ a എന്നും 4 ഔട്ട്പുട്ടുകൾ ഉണ്ടെന്നും ഞാൻ അവയെ സെൽ എന്ന് വിളിക്കുന്നു a യുടെ വാല്യൂവിനെ ആശ്രയിച്ച് ഔട്ട്പുട്ടുകളിൽ ഒന്ന് ഒന്നായി തിരഞ്ഞെടുക്കും ബാക്കിയുള്ളവ പൂജ്യങ്ങളായിരിക്കും ഇത് ഒരു ഡിസൈൻ ഞാൻ മറ്റൊരു ഡിസൈനും കാണിക്കാം ഇതും അതേ ഡീകോഡർ ആണ് ഇവിടെയും എന്റെ ഇൻപുട്ട് ഉണ്ട് ഇവിടെയും എന്റെ തിരഞ്ഞെടുത്ത ഔട്ട്പുട്ടുകൾ ഉണ്ട് എന്നാൽ അതിനുപുറമേ എനിക്ക് എനേബിൾ എന്ന മറ്റൊരു ഇൻപുട്ട് ഉണ്ട് അതിനാൽഎനേബിൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ടുകൾ മാറുകയുള്ളൂ ഞാൻ അത് ഡിസേബിൾ ആക്കിയാൽ ഔട്ട്പുട്ടുകൾ മാറില്ല ഔട്ട്പുട്ടുകൾ ഒടുവിൽ ചില ഗേറ്റുകളിൽ നിന്ന് പുറത്തെടുത്തതായി നിങ്ങൾ കാണുന്നു ചില ഗേറ്റുകൾ ഉണ്ടാകും അതിനാൽ ഈ എനേബിൾ ഈ ഇൻപുട്ട് ഈ AND ഗേറ്റിന്റെ രണ്ടാമത്തെ ഇൻപുട്ടിനെ ഫീഡ് ചെയ്യുന്നു ഡീകോഡറിനുള്ളിലെ ലോജിക്കിൽ നിന്നാണ് മറ്റ് ഇൻപുട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് എനേബിൾ ആക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഗേറ്റുകളുടെ ഔട്ട്പുട്ടിൽ സിഗ്നൽ ട്രാന്സിഷൻ സംഭവിക്കില്ല അതിനാൽ എനിക്ക് ഡീകോഡർ എനേബിൾ ചെയ്യേണ്ടിവരുമ്പോൾ മാത്രം ഇത് എനേബിൾ ചെയ്യുകയും ട്രാന്സിഷൻ നടക്കുകയും ചെയ്യും അടിസ്ഥാന ആശയം ഇങ്ങനെയാണ് അതിനാൽ നിങ്ങൾ വെരിലോഗ് ഉപയോഗിച്ച് ഡിസൈൻ വ്യക്തമാക്കുമ്പോൾ ഉയർന്ന തലത്തിൽ പോലും ആദ്യ വിവരണത്തിൽ എ സെൽ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഞാൻ മൊഡ്യൂളിനെ നിർവചിക്കുന്നു എനേബിൾ ഇല്ല ഇത് ഒരു എനേബിൾ ലെസ് ഡീകോഡറാണ് രണ്ടാമത്തെ ഡിസൈനിൽ ഞാൻ ഒരു എനേബിൾ ഇൻപുട്ടും ഉപയോഗിച്ചു അതിനാൽ നിങ്ങൾ ഇത് എപ്പോൾ മാറ്റുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഇവിടെ പറയുന്നു ഇവിടെ ഞാൻ പറയുന്നത് എപ്പോൾ എനേബിൾഎ രണ്ടും മാറുകയും ചെയ്താൽ ഇത് ചെയ്യുക എന്നാണ് അതിനാൽ ഈ എനേബിൾ ശരിയായ പ്രവർത്തനത്തെ സജീവമാക്കുന്ന ഒരു ഇൻപുട്ട് കൂടിയാണ് ഈ ഉദാഹരണം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഞാൻ വളരെ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും ഞാൻ ഒരു വെരിലോഗ് അല്ലെങ്കിൽ VHDL കോഡ് എഴുതുകയാണ് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ തന്നെ എനിക്ക് അൽപ്പം ബോധവാനായിരിക്കാം കുറഞ്ഞ പവർ കൺസമ്പ്ഷൻ പ്രതീക്ഷിക്കുന്ന ഒരു ഡിസൈൻ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ എന്റെ ഡീകോഡറിലേക്ക് ഈ എനേബിൾ ഇൻപുട്ട് ഞാൻ ചേർക്കട്ടെ അതിനാൽ ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ അത് എനേബിൾ ചെയ്യില്ല അത് തീർച്ചയായും കുറച്ച് വൈദ്യുതി ഉപഭോഗം ചെയ്യും ഇതാണ് ആശയം ഈ ടെക്നിക് ഇവിടെ ഞങ്ങൾ പറയുന്നത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവലിൽ ചില പുനഃക്രമീകരണം നടത്താമെന്നാണ് ഇത് കൃത്യമായി അൽഗോരിതം ലെവൽ അല്ല ഇത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ ആണ് അതിൽ പറയുന്നത് എനിക്ക് നിരവധി സിഗ്നലുകൾ ഉണ്ടായിരിക്കാം അവയിൽ ചിലത് സ്ഥിരതയുള്ള സിഗ്നൽ ആയിരിക്കാം എന്നതിനർത്ഥം അവ മാറില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം എന്നാൽ സർക്യൂട്ടുകളിലെ അസമമായ ഡിലെ കാരണം എനിക്കറിയാവുന്ന ചില സിഗ്നലുകൾ ഒരുകംപറേറ്റർ ഇവിടെ തകരാറുകൾ ഉണ്ടാകാം എനിക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക അവിടെ ഒരു കംപാറേറ്ററിന്റെ ഔട്ട്പുട്ട് ചില മൾട്ടിപ്ലെക്സറുകളെ തിരഞ്ഞെടുക്കുകയും മറ്റ് ചില സ്ഥിരതയുള്ള സിഗ്നൽ വരുകയും ചെയ്യുന്നു അതിനാൽ ചില ഇൻപുട്ടുകൾ ഒടുവിൽ ഇവിടെ തിരഞ്ഞെടുത്തു സർക്യൂട്ടിന്റെ പരിഷ്ക്കരിച്ച പതിപ്പിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ തകരാറുകളോ സ്ഥിരതയുള്ളതോ ആയ സിഗ്നലിന്റെ ക്രമം ഞാൻ മാറ്റുന്നു കാരണം എന്ത് സംഭവിക്കും ഇവിടെ ഗ്ലിച്ചി സിഗ്നൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ തകരാറുകൾ കാരണം ചിലപ്പോൾ ഇത് തിരഞ്ഞെടുക്കപ്പെടും ഈ കുഴപ്പം ഇവിടെ പ്രചരിക്കുമെന്നർത്ഥം അതിനാൽ ഈ ലൈനിനെ ബാധിക്കുക മാത്രമല്ല ഈ ലൈനിനെയും ബാധിക്കും എന്നാൽ ഈ മൾട്ടിപ്ലക്സർ നിയന്ത്രിക്കാൻ ഞാൻ ആദ്യം ഈ സ്ഥിരതയുള്ള സിഗ്നൽ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ഭാഗം വരെ ഒരു തകരാറിന്റെ ഫലവുമില്ല കുഴപ്പം ഈ ഭാഗത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ തകരാർ ഈ മൾട്ടിപ്ലക്സറിനെ മാത്രമല്ല അടുത്ത മൾട്ടിപ്ലക്സറിനെയും ബാധിക്കും അതിനാൽ സാധ്യമാകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഇത് പുനഃക്രമീകരിക്കാം ഞാൻ എടുക്കുന്ന അവസാന ഉദാഹരണം മെമ്മറി രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് മെമ്മറി എങ്ങനെ പാർട്ടീഷൻ ചെയ്യാം ഒരു പ്രോസസറിനായി നിങ്ങൾ മെമ്മറി സിസ്റ്റം രൂപകൽപന ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങൾ അത് ഒരൊറ്റ ബ്ലോക്കോ ചിപ്പോ ആയി രൂപകൽപ്പന ചെയ്യുന്നില്ല അതായത് ഒരു ചിപ്പിനുള്ളിൽ പോലും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നിലധികം ബ്ലോക്കുകൾ ഉണ്ട് അവ സമാന്തരമായി ആക്സസ് ചെയ്യപ്പെടുന്നു അതിനാൽ അവയിലൊന്ന് തിരഞ്ഞെടുക്കാം മറ്റുള്ളവരെ പ്രവർത്തനരഹിതമാക്കാം മെമ്മറി ഇന്റർലീവിംഗ് ഉണ്ടാകാം അതിനാൽ പല വഴികളുണ്ട് ഇതാണ് സാധാരണ ചെയ്യുന്നത് നിങ്ങൾ ഈ ലളിതമായ ഡയഗ്രം നോക്കുകയാണെങ്കിൽ 32 ബിറ്റ് ഡാറ്റയുള്ള മെമ്മറി സിസ്റ്റത്തിന്റെ ഉദാഹരണമാണിത് അവിടെ 8 ബിറ്റ് അഡ്രസ് ബസ്സും ഉണ്ട് ഇത് 256 വേഡ്സ് ഉള്ള ഒരു മെമ്മറി സിസ്റ്റമാണ് ഓരോ വേർഡിലും 32 ബിറ്റ് ഡാറ്റ അടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഇത് രൂപകല്പന ചെയ്യുന്ന രീതി ഞങ്ങൾ അതിനെ 2 മെമ്മറി മൊഡ്യൂളുകളായി വിഭജിക്കുന്നു അവയിൽ ഓരോന്നിനും 128 ബൈ 32 128ബൈ 32 എന്നിങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ 8 അഡ്രസ്കളിൽ ഇത് ഈ 2 ൽ നിന്ന് ഒരു വേഡ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹൈ ഓർഡർ 7 അഡ്രസ് കൂടാതെ ഈ മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റകളിലൊന്ന് തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന അഡ്രസ്ന്റെ ലീസ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഞാൻ തിരഞ്ഞെടുക്കുന്നതിൽ ഹൈ ഓർഡർ ബിറ്റുകൾലോ ഓർഡർ ബിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ ഇവയിലൊന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ മെമ്മറി ഇന്റർലീവിംഗ് ഉപയോഗിക്കുന്നുഅഡ്രസ് ഇവിടെ 0ആയിരിക്കും അഡ്രസ് ഇവിടെ1 ആയിരിക്കും ഇവിടെ 2ആയിരിക്കും ഇവിടെ 3ആയിരിക്കും ഇവിടെ4 ആയിരിക്കും ഇവിടെ 5ആയിരിക്കും ഹൈ ഓർഡർ അഡ്രസ് 0 ആകുമ്പോഴെല്ലാം എല്ലാം 0 അതിനാൽഅഡ്രസ് 0 ഡാറ്റ ഇവിടെ വരും അഡ്രസ് 1 ഡാറ്റ ഇവിടെ വരും അതിനാൽ ലീസ്റ് അഡ്രസ്ബിറ്റ് ഉപയോഗിച്ച് എനിക്ക് ഇതോ ഇതോ തിരഞ്ഞെടുക്കാം ഇതാണ് ആശയം ഇപ്പോൾ നിങ്ങൾ അതിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായി ഊർജ്ജത്തിന്റെ കാര്യത്തിലും ലാഭിക്കുന്നു ഇപ്പോൾ രസകരമായ മറ്റൊരു കാര്യം നോക്കാം ഇത് ഞാൻ പറയുന്നത് ആപ്ലിക്കേഷൻ ഡ്രൈവ് മെമ്മറി പാർട്ടീഷൻ ആണ് ഞാൻ ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെന്ന് കരുതുക എനിക്ക് ഒരു ചെറിയ പ്രോസസർ ഉണ്ട് നമുക്ക് ഒരു ARM പ്രോസസർ പറയാം അത് 64 കിലോ ബൈറ്റ് മെമ്മറിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ റൺ ചെയ്യേണ്ട പ്രോഗ്രാമിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിശകലനം നടത്തുന്നു അത് എന്റെ ആപ്ലിക്കേഷനാണ് ഈ 64 കെ അഡ്രസ്ൽ അത് ഞാൻ കാണുന്നു ഞാൻ റീഡിന്റെ എണ്ണം പ്ലോട്ട് ചെയ്യുന്നു ആദ്യത്തെ 28 കെ റീഡ് ഓപ്പറേഷനുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് ഞാൻ കാണുന്നു അടുത്ത 4 കെ റീഡിന്റെ കാര്യത്തിൽ വളരെ ഹെവിയാണ് എന്നാൽ അവസാനത്തെ 32 കെ ഇതിനിടയിൽ എവിടെയോ ആണ് എനിക്ക് എന്റെ മെമ്മറി ബ്ലോക്കിനെ ഈ 3 ഭാഗങ്ങളായി വിഭജിക്കാം ഒരു മൊഡ്യൂളിൽ ആദ്യത്തെ 28 കെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഈ 4 കെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഈ 30 32 കെ അതിനാൽ ഈ മൂന്നാമത്തെ മൊഡ്യൂൾ കഴിയുന്നത്ര വേഗത്തിൽ നിർമ്മിക്കാൻ ഞാൻ ശ്രമിക്കും എന്നതാണ് എന്റെ ആശയം എനിക്ക് പവർ ഡൌൺ മോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യത്തെ മൊഡ്യൂൾ വേഗത കുറയ്ക്കാൻ എനിക്ക് കുറഞ്ഞ പവർ സപ്ലൈ ഉപയോഗിക്കാം പക്ഷേ അത് വളരെ അപൂർവമായി മാത്രമേ ആക്സസ് ചെയ്യപ്പെടുന്നുള്ളൂ അതിനാൽ ഇത് ഞങ്ങൾക്ക് നല്ലതാണ് ഈ 4 കെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന ഇടയ്ക്കിടെ ആക്സസ് ചെയ്യപ്പെടുന്നതിനാൽ മൂന്നാമത്തെ മൊഡ്യൂൾ അതിനിടയിൽ എവിടെയോ ആകാം നിങ്ങൾക്ക് 3 മെമ്മറി മൊഡ്യൂളുകളുള്ള ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കാം അവയിൽ ഓരോന്നും ട്യൂൺ ചെയ്തത് അതിനനുസരിച്ച് അവയിലൊന്ന് വളരെ വേഗത്തിലാകുമെന്നാണ് അവയിലൊന്ന് വളരെ സാവധാനത്തിലാകാം അവയിലൊന്ന് അതിനിടയിലാകാം ഡീകോഡറിന് ഈ 3 മൊഡ്യൂളുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം അതിനാൽ ഈ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിങ്ങളുടെ മൊത്തം മെമ്മറി സ്പേസ് പല ഭാഗങ്ങളായി വിഭജിക്കാം കൂടാതെ ഈ പാർട്ടീഷനുകളുടെ വിവിധ പവർ പ്രൊഫൈലുകൾ വ്യത്യാസപ്പെടാം ആൽഗരിതങ്ങളുടെ തലത്തിലുള്ള ആർക്കിടെക്ചറുകളുടെ തലത്തിൽ ഗേറ്റുകളുടെ തലത്തിൽ ട്രാൻസിസ്റ്ററുകളുടെ തലത്തിൽ സാധ്യമായ എല്ലാ വഴികളിലും പവർ കൺസമ്പ്ഷൻ നിയന്ത്രിക്കാനോ കുറയ്ക്കാനോ ആളുകൾ ഉപയോഗിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സർക്യൂട്ടുകളിലെ പവർ ഡെസിപ്പേഷൻ കുറയ്ക്കാൻ ആളുകൾ ഇന്ന് ഒന്നും ഉപേക്ഷിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഞങ്ങൾ സാങ്കേതിക കാര്യങ്ങൾ സംസാരിച്ച പരമ്പരയിലെ അവസാനത്തെ പ്രഭാഷണമാണിത്